ഒരു യഥാർത്ഥ ആന്റിനയിൽ എന്താണ് പ്രശ്നം എന്ന് നമുക്ക് നോക്കാം അതിനാൽ റിയലിസ്റ്റിക് ആന്റിന എന്നത് വ്യക്തമായും പരിമിതമായ നീളമുള്ള ഒരു ആന്റിന ഇപ്പോൾ ഒരു പരിമിത ദൈർഘ്യമുള്ള ആന്റിനയിൽ നിങ്ങൾ എന്ത് വൈദ്യുതി വിതരണം അനുമാനിക്കും ഒരു അറിവും ഇല്ല ശരിയല്ലേ അപ്പോൾ നിങ്ങൾ അനുമാനിക്കുമായിരിക്കും ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് ഒരു ട്രാൻസ്മിഷൻ ലൈൻ നൽകിയാൽ ഒരു ട്രാൻസ്മിഷൻ ലൈൻ എടുക്കുകയും അവസാനം അത് ഓപ്പൺ സർക്യൂട്ടിൽ വയ്ക്കുകയും ചെയ്താൽ ഒരു ട്രാൻസ്മിഷൻ ലൈൻ എടുക്കുകയും രണ്ട് അറ്റങ്ങൾ വളയ്ക്കുകയും ചെയ്താൽ അത് ആന്റിനയുടെ വളരെ അസംസ്കൃത രൂപമാണ് അപ്പോൾ ഒരു ട്രാൻസ്മിഷൻ ലൈനിലെ വൈദ്യുതി വിതരണം എന്താണ് സിനുസോയ്ഡൽ നിശ്ചലമായ തരംഗങ്ങൾ അല്ലേ അതിനാൽ സിനുസോയ്ഡൽ പ്രത്യേകിച്ച് അറ്റത്ത് ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ അതിനാൽ ആന്റിനയുടെ അവസാനം ഒരു തരം വയറുകളുടെ ഫീൽഡ് കറന്റിലേക്ക് പോകുന്നു അത് 0 ആവുന്നു കൂടാതെ ഏതെങ്കിലും ദൈർഘ്യത്തെ ആശ്രയിച്ച് എനിക്ക് ഒരുതരം സിനുസോയ്ഡൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും ഞാൻ അതാണ് ഉദ്യേശിച്ചത് അതെ ഒരു ആന്റിന നിർമ്മിക്കാൻ ഞാൻ സങ്കല്പികമായി ഒരു മാനസിക പരീക്ഷണം നടത്തുന്നത് പോലെ എന്നാൽ നിങ്ങൾ വളച്ച് കഴിഞ്ഞാൽ ഇത് യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല പിന്നീട് അത് ഒരു യഥാർത്ഥ ട്രാൻസ്മിഷൻ ലൈനുകളല്ല അതിനാൽ ആ നിലവിലെ വിതരണം മേലിൽ ഒരു സിനസോഡിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കില്ല അതിനാൽ യഥാർത്ഥത്തിൽ ഒരു റിയലിസ്റ്റിക് ആന്റിനയിലെ നിലവിലെ വിതരണം എനിക്കറിയില്ല നിലവിലെ റിയലിസ്റ്റിക് ഡിസ്ട്രിബ്യൂഷൻ എനിക്കറിയില്ലെങ്കിൽ എനിക്ക് ഈ എക്സ്പ്രെഷൻ ശരിയായ രീതിയിൽ പിന്നീട് ഉപയോഗിക്കാൻ കഴിയില്ല എനിക്കറിയില്ലെങ്കിൽ എനിക്ക് എങ്ങനെ കണ്ടെത്താനാകും കൺവൊലുഷൻ അതിനാൽ എനിക്കറിയില്ല അതിനാൽ ഇവിടെയാണ് CEM നമ്മളുടെ രക്ഷയ്ക്ക് വരുന്നത് അതിനാൽ കമ്പ്യൂട്ടേഷണൽ ഇലക്ട്രോമാഗ്നെറ്റിക്സ് J യുടെ അതിർത്തി വ്യവസ്ഥകൾ എന്തായിരിക്കണം എന്ന് കണക്കാക്കാൻ നമ്മെ സഹായിക്കുന്നു എനിക്ക് ലഭിക്കുന്നു അപ്പോൾ ഞാൻ അതിനെ തിരിച്ച് കിട്ടുന്നതിനായി പ്ലഗ് ചെയ്യണം കിട്ടണം കിട്ടണം അതിനാൽ അവിടെയാണ് CEM നമ്മുടെ രക്ഷക്ക് എത്തുന്നത് അതുകൊണ്ട് CEM നമ്മൾ കണക്കാക്കുന്നു വിദ്യാർത്ഥി അതിനാൽ അത് കണ്ടെത്താം അതെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ശരിയാണെന്ന് കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിച്ച ഇന്റഗ്രൽ ഇക്വേഷൻ രീതികളിലെ നമ്മളുടെ ആദ്യ ഉദാഹരണം പോലെ അതിനാൽ കണക്കുകൂട്ടുക പിന്നെ പിന്നെ കൂടാതെ അതാണ് നമ്മൾ പിന്തുടരുന്ന പൊതു തത്വശാസ്ത്രം ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന രണ്ട് വ്യത്യസ്ത സംഭവങ്ങളുണ്ട് ഒന്ന് ട്രാൻസ്മിഷൻ മറ്റൊന്ന് റിസിവിങ് മോഡിൽ പ്രവർത്തിക്കുന്ന ആന്റിന അതിനാൽ ആന്റിന ട്രാൻസ്മിറ്റിംഗ് മോഡിൽ പ്രവർത്തിക്കുമ്പോൾ അതിനാൽ സാധാരണയായി നിങ്ങൾ ഇത് കാണിക്കുന്നത് ഇങ്ങനെയാണ് കുറച്ച് ജനറേറ്റർ ഇവിടെയുണ്ട് ഈ ജനറേറ്റർ ഒരു കറന്റ് ഉത്പാദിപ്പിക്കുന്നു ഈ കറന്റ് പ്രസരിക്കുന്നു ഞാൻ അർത്ഥമാക്കുന്നത് ഈ കറന്റ് ഒരു ഫീൽഡ് ഉണ്ടാക്കുന്നു എന്നാണ് അതിനാൽ ഇത് ട്രാൻസ്മിറ്റിംഗ് കേസ് ആണ് ഇത് എന്റെ ആന്റിന ആണെങ്കിൽ സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് ചില ഈ ആന്റിനയിൽ വീഴുന്നു അത് എന്ത് ചെയ്യും അത് ഉല്പാദിപ്പിക്കും അത് ഈ ലോഹഘടനയിൽ ഒരു വൈദ്യുതധാരയെ പ്രേരിപ്പിക്കും അതിനാൽ ഇത് ഇവിടെ ഒരു കറന്റ് ഉണ്ടാക്കാൻ പോകുന്നു എനിക്ക് ആ കറന്റ് അത് എടുത്ത് റെസിസ്റ്ററിലുടനീളം ഇടാം വോൾട്ടേജ് കണക്കാക്കുകയും അടിസ്ഥാനപരമായി ഇത് ശരിയാക്കുകയും ചെയ്യാം അതിനാൽ സ്വീകരിക്കുന്ന കേസിൽ ഇതാണ് സംഭവിക്കുന്നത് ഇവിടെയുള്ള ട്രാൻസ്മിറ്റിംഗ് കേസിൽ ഇതാണ് അതിനാൽ രണ്ട് സാഹചര്യങ്ങളിലും പൊതുവായത് ഒരു ഇൻഡ്യൂസ്ഡ് കറന്റ് ഉണ്ട് എന്നതാണ് ഒരു സാഹചര്യത്തിൽ ജനറേറ്റർ വയറിന്റെ ഉപരിതലത്തിൽ വൈദ്യുതധാരയെ സൃഷ്ടിക്കുന്നു തുടർന്ന് ആ വൈദ്യുതധാര വികിരണം ചെയ്യുന്നു സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ ഇൻസിഡന്റ് ഫീൽഡ് പ്രതലത്തിൽ ഒരു വൈദ്യുതധാരയെ ഉത്തേജിപ്പിക്കുന്നു ഉത്തേജിപ്പിക്കപ്പെട്ട വൈദ്യുതധാരയെ നമ്മൾ ഏതെങ്കിലും അർത്ഥത്തിൽ ഡീകോഡ് ചെയ്യുന്നു അതിനാൽ രണ്ട് സാഹചര്യങ്ങളിലും ഒരു ഇൻഡ്യൂസ്ഡ് കറന്റ് ഉണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടക്ടറുകളെ കുറിച്ചു സംസാരിക്കാൻ പോകുന്നു വാസ്തവത്തിൽ വളരെ നല്ല കണ്ടക്ടറുകൾ ശരിയാണ് അതിനാൽ ഒരു വയറിനെക്കുറിച്ച് ചിന്തിക്കുക അത് വ്യാഖ്യാനത്തിന്റെ കാര്യമാണ് ഉപരിതലത്തിൽ ഉണ്ടായ ഒരു വൈദ്യുതധാരയായി നിങ്ങൾക്ക് ഇതിനെ കണക്കാക്കാം ആ കറന്റ് ഞാൻ ഉദ്ദേശിച്ചത് വോൾട്ട് ഉള്ളപ്പോൾ ഒരു വയറിലൂടെയും ഒരു റെസിസ്റ്ററിലൂടെയും കറന്റ് പ്രവഹിക്കുമ്പോൾ അവിടെ വോൾട്ടേജ് ആദ്യം വന്നു എന്ന് നിങ്ങൾ പറയും പിന്നീട് കറന്റ് അല്ലെങ്കിൽ കറന്റ് ആദ്യം വന്നു അപ്പോൾ വോൾട്ടേജ് കാര്യമില്ലെന്ന് നിങ്ങൾ പറയും അങ്ങനെയാണെങ്കിലും രണ്ടും ഒരേ കാര്യമാണ് നിങ്ങൾ ഒരു ശുദ്ധ ഭൌതികശാസ്ത്രജ്ഞനോട് ചോദിച്ചാൽ ചിലതുണ്ട് അതെ ഒരു എഞ്ചിനീയറിംഗ് വീക്ഷണകോണിൽ നിന്ന് കാണുമ്പോൾ ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ വ്യാഖ്യാനവുമായി നമ്മൾ പോകുന്നത് പ്രശ്നമില്ല കാരണം ഫീല്ഡിനെ കറന്റുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗം നമ്മൾക്ക് അറിയാം എനിക്ക് അറിയാമെങ്കിൽ എനിക്ക് കണക്കാക്കാം ശരിയല്ലേ അതിനാൽ അതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന തത്വശാസ്ത്രം എന്നാൽ നിങ്ങൾ എനിക്ക് വോൾട്ടേജ് നൽകിയാൽ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളുമായി Maxwell's equations എന്തുചെയ്യണമെന്ന് എനിക്ക് പെട്ടെന്ന് അറിയില്ല എന്തുകൊണ്ടാണ് ഞാൻ അതിൽ വോൾട്ടേജ് ഇടുന്നത് അത് വൈദ്യുത മണ്ഡലത്തിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് വലത് ഗ്രേഡിയന്റാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അല്ലെങ്കിൽ ഗ്രേഡിയന്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ് അതെ അതിനാൽ നമ്മൾ ഇവിടെ ഇൻഡ്യൂസ്ഡ് കറന്റ് തത്വശാസ്ത്രം പിന്തുടരുന്നു അതിനാൽ നമ്മൾ തുടരുമ്പോൾ കൂടുതൽ വിശദമായി പോകും എന്നാൽ അടിസ്ഥാനപരമായ കാര്യം നമ്മൾ ഇൻഡ്യൂസ്ഡ് കറന്റിനെ പറ്റി സംസാരിക്കണം ഇൻഡ്യൂസ്ഡ് കറന്റ് കൂടാതെ ക്വാണ്ടിറ്റി പോലുള്ള വേറെ ഫീൽഡും ഉണ്ടോ അതെ ആന്റിന സ്വീകരിക്കുന്ന കാര്യത്തിൽ ഒരു ഇൻസിഡന്റ് ഫീൽഡ് ഉണ്ട് ഒരു വൈദ്യുതധാരയെ പ്രേരിപ്പിക്കുന്ന ഒരു ഫീൽഡ് ഉണ്ട് അത് കറന്റ് തന്നെ പ്രസരിക്കാൻ പോകുന്നു അതുപോലെ ജനറേറ്റിംഗ് കേസിൽ ജനറേറ്റർ മൂലം ഒരു ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറന്റ് ഉണ്ടാകും ഒപ്പം വയറിൽ എന്തെങ്കിലും അതിനാൽ എനിക്ക് വിഷമിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്